നമസ്കാരം ഈ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്യതത് സർക്യൂട്ടിന്റെ ലീനിയറിറ്റി എന്ന സവിശേഷത കൂടാതെ സ്രോതസ്സ് പരിവർത്തനം പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ്വിത്വത്തെ കുറിച്ചും ചർച്ച ചെയ്തു ഇവയുടെ മൂന്നിന്റെയും വിഷയാനുസന്ധാനമായി നമുക്ക് തെവെനിൻ സിദ്ധാന്തം എന്ന നെറ്റ്വർക്ക് സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങാം സർക്യൂട്ടിന്റെ കാഴ്ചപ്പാടിൽ തെവെനിൻ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ടത് ആണ് നിങ്ങൾ വീട്ടിലെ യന്ത്രാപകരണങ്ങളിലെ ഇലക്ട്രിക് പ്ലഗ് ഓൺ ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ ഉപകരണത്തിന്റെ വോൾട്ടേജു കറണ്ട് ഘടകങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്യും അപ്പോൾ ഈ പ്ലഗ് പോയിൻന്റെ പുറത്തുള്ള സർക്യൂട്ട് നിങ്ങൾ അവഗണിക്കും എന്ത് സംഭവിക്കും നിങ്ങൾ ഈ സർക്യൂട്ട് ഘടകങ്ങൾ വിശകലനം ചെയ്യും കൂടാതെ വേറെ ഉപകരണങ്ങളേയും വിശകലനം ചെയ്യും അതായത് ഓരോ യന്ത്രാപകരണങ്ങൾക്കും അതിന്റെതായ കരണ്ട് നില ഉണ്ട് എങ്കിലും വോൾട്ടേജ് നില യന്ത്രോപകരണങ്ങളിലും ഏകദേശം ഒന്നായിരിക്കും ആ സാഹചര്യത്തിൽ നിങ്ങൾ ആ യന്ത്രോപകരണങ്ങളിൽ പഠനം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ സാധിക്കും നിങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ സർക്യൂട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾക്ക് ആ പവർ സിസ്റ്റം നെറ്റ്വർക്ക് മൊത്തമായും എടുക്കണം അത് വളരെ വലിപ്പം കൂടിയതാണ് അവസാനം നൂറോളം മെഷ് നെറ്റ് വർക്കും നൂറോളം നോഡുകളും ആയി അവസാനിക്കും നിങ്ങൾ മെഷ് വിശകലനം അല്ലെങ്കിൽ നോഡൽ വിശകലനം ചെയ്തു തുടങ്ങിയാൽ കുറേ സമയമെടുക്കും ഇത് ആ ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ പ്രാപ്തമല്ല ഇത് അഭിസംബോധന ചെയ്യാൻ നമുക്ക് പവർ സിസ്റ്റം നെറ്റ്വർക്കിംഗ്ന്റെ തുല്യമായ ആകത്തുക ചിത്രീകരിക്കാം ഇത് ആ പ്ലഗ് പോയിന്റെ പുറമേയുള്ളതാണ് എങ്കിൽ ആ ലോഡിന്റെ മാത്രം വിശകലനം ചെയ്യുക അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള പരിവർത്തന വസ്തുവിന്റെ മാത്രം ആ പ്രശ്നം പരിഹരിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തമാണ് തെവെനിൻ സിദ്ധാന്തം കാരണം ഇത് ഉപയോഗിക്കുന്ന സാങ്കേതികത്വം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിന്റെ സ്ഥിരമായ ഭാഗം വേറെ ഒരു ഒത്ത സർക്യൂട്ട് ആയി മാറ്റി വയ്ക്കുന്നു ഇനി തെവെനിൻ സിദ്ധാന്തം പ്രകാരം ഇടത് വശത്ത് കാണിച്ചിരിക്കുന്ന ലീനിയർ സർക്യൂട്ട് വലതുവശത്തുള്ള സർക്യൂട്ട് ആയിട്ട് മാറ്റിവയ്ക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സങ്കൽപ്പിക്കാം ഇത്രണ്ട് പോയിൻറ്കൾ ആണ് നിങ്ങളുടെ വീട്ടിലെ പ്ളഗ് പോയിൻറ്കൾ പുറമേ നിങ്ങൾക്കു ലീനിയർ സർക്യൂട്ട് കാണാം അതിനാൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തെവെനിൻ സിദ്ധാന്തം ലീനിയർ ആണെങ്കിൽ അത് നന്നായി പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ സങ്കൽപ്പിക്കുക ഈ സർക്യൂട്ട് അതായത് ഇവിടെ പ്ളഗ് പോയിന്റെ പുറത്തുള്ളത് ലീനിയർ സർക്യൂട്ട് ആണെന്ന് എന്നിട്ട് നിങ്ങൾ ആ ഭാഗം വേറൊരു തുല്യതാ സർക്യൂട്ട് ആയി മാറ്റി വയ്ക്കും അവിടെ ഒരു വോൾട്ടേജ് സ്രോതസ്സും ഒരു റെസിസ്റ്റൻസും ഉണ്ടാകും ഈ രീതിയിൽ ഇതിൽ നിങ്ങൾ വിശകലനം ചെയ്യുന്ന വേറുള്ള സർക്യൂട്ട് ഘടകങ്ങളുടെ അതായത് വോൾടേജ് കറണ്ട് എന്നിവയുടെ ലോഡ് ഈ ലോഡ് നിങ്ങൾ തുല്യത സർക്യൂട്ട് ആയിട്ട് ഘടിപ്പിച്ചിരിക്കും ഇത് ആ ലോഡ് ടെർമിനൽ ആയിട്ട് ബാഹ്യാവസ്ഥയിൽ ആയിരിക്കും അതിനാൽ ഈ സർക്യൂട്ട് ഈ നോഡ് എ ബി യോട് ഇടതു ഉള്ളതിനെ വിളിക്കുന്നത് തെവെനിൻ തുല്യതാ സർക്യൂട്ട് എന്നാണ് ഈ ആശയം ഫ്രഞ്ച് ടെലിഗ്രാഫ് എഞ്ചിനീയർ ആയ എം ലിയോൺ തെവെനിൻ 1883 യിൽ വികസിപ്പിച്ചെടുത്തത് ആണ് തെവെനിൻ സിദ്ധാന്തം എന്താണ് പറയുന്നത് രണ്ട് ടെർമിനൽ ഉള്ള ഒരു ലീനിയർ സർക്യൂട്ട് ഒരു തുല്യത സർക്യൂട്ട് അതായത് ഒരു വോൾടേജ് സ്രോതസ്സും അതിനോട് സീരീസ് ആയിട്ടുള്ള റെസിസ്റ്ററും ഉള്ള ഒരു തുല്യത സർക്യൂട്ട് ആയിട്ട് മാറ്റി വെയ്ക്കാം ആണ് ടെർമിനലിൽ ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾടേജ് കൂടാതെ ആണ് ടെർമിനലിൽ ഉള്ള തുല്യത റെസിസ്റ്റൻസ് സ്വതന്ത്രത സ്രോതസ്സ് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ ന്റെ മൂല്യം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്ര സ്രോതസ്സുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു തുല്യതാ സർക്യൂട്ട് സൃഷ്ടിക്കണം സ്വതന്ത്ര സ്രോതസ്സുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക വെച്ചാൽ സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് ആക്കണം കൂടാതെ ഒരു സ്വതന്ത്രത കറണ്ട് സ്രോതസ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആക്കണം തെവെനിൻ സിദ്ധാന്തത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്റെയും ന്റെയും മൂല്യങ്ങൾ കണ്ടു പിടിക്കാൻ ഉള്ള വഴികൾ തിരിച്ചറിയണം നമ്മൾ തുല്യതാ സർക്യൂട്ടിന്റെ കേസ് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക് എളുപ്പത്തിൽ ന്റെയും ന്റെയും മൂല്യങ്ങൾ കണ്ടു പിടിക്കാൻ ഉള്ള വഴികൾ തിട്ടപ്പെടുത്തുവാൻ സാധിക്കും ഇനി നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള രണ്ട് സർക്യൂട്ടും തുല്യമാണെന്ന് സങ്കൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അജ്ഞാതമായ ലീനിയർ നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് അതായത് നമ്മൾ ടെർമിനൽ a b ക്കും കുറുകെ ഘടിപ്പിച്ചിട്ടുള്ള ലോഡ് നമുക്ക് ലീനിയർ സർക്യൂട്ടിന്റെ അകത്താണോ പുറത്താണോ എന്ന് അറിയില്ല ടെർമിനൽ a b ക്കും കുറുകെ ഉള്ള വോൾടേജ് V ആണ് ലോഡിലേക് പ്രവഹിക്കുന്ന പുറമേയുള്ള കറണ്ട് I ആണ് അതായത് അത് നമ്മൾ തെവനിയനു തുല്യം ആയിട്ടുള്ള ഒരു പുറമേയുള്ള സർക്യൂട്ട് ഇവിടെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതായത് വോൾടേജ് റെസിസ്റ്റൻസ് ആയിട്ട് സീരീസ് ആയിട്ടുള്ള സർക്യൂട്ട് കൂടാതെ V I വിശേഷലക്ഷണം അതുപോലെ തന്നെ ഈ ടെർമിനലിൽ ഉണ്ടെങ്കിൽലോഡ് പുറത്തേക്ക് എടുക്കുന്ന സമയത്തു തുല്യത സർക്യൂട്ട് ആയിട്ട് ഈ പുറമേയുള്ള സർക്യൂട്ടിനെ കരുതണം അതിനാൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ ഈ സർക്യൂട്ടുകളെല്ലാം ശെരിയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് സർക്യൂട്ടിന്റെയും ടെർമിനലിൽ കറണ്ട് വോൾടേജ് തമ്മിൽ ഉള്ള ബന്ധം ഒരുപോലെ ആയിരിക്കണം ഇനി ടെർമിനൽ എ ബി ലോഡ് നീക്കംചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കുമ്പോൾ ഒരു കറണ്ടും ലോഡിൽ കൂടി പ്രവഹിക്കില്ല ഇനി ടെർമിനൽ എ ബി ക്ക്കുറുകെ ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾടേജ് സർക്യൂട്ടിന്റെ ഇടതുവശത്തു ഉള്ളത് സർക്യൂട്ടിന്റെ വലതു ഇടതുവശത്തു ഉള്ള എന്ന സ്രോതസ്സ് വോൾടേജ്ന് കുറുകെ ആയിരിക്കണം ഇതിന്റെ അർത്ഥം നിങ്ങൾ ലോഡ് നീക്കം ചെയ്താൽ കുറച്ച് വോൾട്ടേജ് ടെർമിനൽ എ ബി ക്ക് കുറുകെ ഉണ്ടാകും ലോഡ് ഇവിടെ നിന്ന് നീക്കം ചെയ്താൽ V എന്ന അതെ വോൾടേജ് തന്നെ എ ബി ക്ക് കുറുകെ ഉണ്ടാകും ഈ തുല്യത ഉപയോഗിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാം എന്ന വോൾടേജ് കാരണം ടെർമിനലിന് കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണെന്ന് ലോഡിനെ നീക്കം ചെയ്താൽ നിങ്ങൾക്ക് കാണാം കുറച്ചു വോൾട്ടേജ് അതായത് ഇതുപോലെതന്നെ തെവെനിൻ തുല്യതയുടെ കാര്യത്തിലും ഇവിടെ നിങ്ങൾ നോഡിനെ നീക്കം ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം എന്നാണു ഈ രണ്ടു യും ഒന്നാണ് കാരണം ഈ വേറൊന്നുമല്ല പക്ഷെ ആണെന്ന് കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആക്കിയാൽ ഈ ഭാഗത്തു കറണ്ട് പ്രവഹിക്കില്ല ഇവിടെ ലോഡ് നീക്കം ചെയ്താൽ കറണ്ട് പ്രവേശിഹിക്കില്ല ഈ കേസിൽ ഈ വോൾട്ടേജ് വേറൊന്നുമല്ല പക്ഷേ ആണ് അപ്പോൾ നമുക്കു എന്ത് പറയാം എന്ന് വെച്ചാൽ രണ്ടു ടെർമിനൽ സർക്യൂട്ട് ലീനിയർ ആണെങ്കിൽ ടെർമിനൽ എ ബി ക്കു കുറുകെ ഉള്ള വോൾടേജ് ആണെന്ന് ഇനി ലോഡ് വിച്ഛേദിച്ചാൽ ടെർമിനൽ എ ബി കാരണം എങ്കിൽ നിങ്ങൾക് ടെർമിനൽ എ ബി ക്കു കുറുകെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ടെർമിനൽ എ ബി യിൽ എല്ലാ സ്വതന്ത്ര സ്രോതസ്സും ഓഫ് ചെയ്യണം സ്വതന്ത്ര സ്രോതസ്സും ഓഫ് ചെയ്യുക എന്നുവെച്ചാൽ ടെർമിനലിന്റെ അകത്ത് നമുക്കൊരു വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മാറ്റിവെക്കും കൂടാതെ കറണ്ട് സ്രോതസ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റി വയ്ക്കും ഈ കേസിൽ ഇത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ രണ്ട് ടെർമിനൽ സർക്യൂട്ട് വേറൊന്നുമല്ല പക്ഷേ ഒരു ഉപയോഗമില്ലാത്ത സർക്യൂട്ട് ആണ് കാരണം അതിൽ സ്രോതസ്സ് ലഭ്യമല്ല ഇനി ഈ 2 ടെർമിനൽ എ യുടെയും ബി യുടെയും ഇടയ്ക്കുള്ള തുല്യത റസിസ്റ്റൻസ് നമ്മൾ അളന്നാൽ അത് രണ്ട് കേസിലും ഒരുപോലെ ആയിരിക്കും അതായത് ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് കേസിലെ പോലെ തന്നെ അതായത് സ്രോതസ്സുകളെല്ലാം ഓഫ് ആയിരിക്കും നമ്മൾ അളക്കും ഇത്പോലെത്തന്നെ നിങ്ങൾ അളന്നാൽ ഇവിടെ ഈ മൂല്യം ആയിരിക്കും കാരണം ഈ കേസിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപ്പോൾ ആ കേസിൽ ഏതു റെസിസ്റ്ററും നമ്മൾ ഈ രണ്ടു കേസിൽ കണ്ടാലും അതായത് ലീനിയർ സർക്യൂട്ടിനു കുറുകെ കണ്ടാൽ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളിലും കണ്ടാൽ അവ പൂജ്യത്തിനു സമം ആയിരിക്കും അതായത് നു സമം ഈ രണ്ട് ഉപാധികളും വെച്ചിട്ട് തെവെനിൻ സിദ്ധാന്തത്തിനു ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആയ ഉം ഉം കണ്ടുപിടിക്കാം ഇനി ന്റെ മൂല്യം കണ്ടുപിടിക്കുക രണ്ടു വ്യത്യസ്തമായ കേസ്സ് ഉണ്ട് എന്താണ് രണ്ടു വ്യത്യസ്തമായ കേസ്സ് ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്കിൽ ഒരു ആശ്രിത സ്രോതസ്സ്സ്സും ഇല്ലെങ്കിൽ വളരെയെളുപ്പത്തിൽ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും ഓഫ് ചെയ്യാം നമ്മൾ വോൾട്ടേജിനെ ഷോർട്ട് സർക്യൂട്ടും കറണ്ട് സ്രോതസിനെ ഓപ്പൺ സർക്യൂട്ടും ആകുന്നതുപോലെ ടെർമിനൽ എ യുടെയും ബി യുടെയും ഇടയിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് അതായത് ടെർമിനൽ എ യില്നിന്നും ബി യില്നിന്നും നമ്മൾ കാണുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണോ എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും സീറോയ്ക്ക് തുല്യമായി വെക്കുമ്പോൾ അതായിരിക്കും തെവെനിൻ റെസിസ്റ്റൻസ് ഇനി കേസ് 2 അതായത് നെറ്റ്വർക്കിൽ ആശ്രിത സ്രോതസ്സും ഉള്ളപ്പോൾ നമുക്ക് ആശ്രിത സ്രോതസ്സ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല കാരണം അവയെ നിയന്ത്രണവിധേയമാക്കിയിരിക്കുന്നത് വേറെ ഏതെങ്കിലും പരിവർത്തിതവസ്തു ആണ് അപ്പോൾ ആ കേസിൽ എന്ത് സംഭവിക്കും നമുക്ക് സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ചെയ്യാം ആശ്രിത സ്രോതസ്സ് ഓൺ ആക്കി വെച്ചിട്ടു ഇനി സർക്യൂട്ട് എങ്ങനെ വിശകലനം ചെയ്യാം നിങ്ങൾ വളരെ ലളിതമായി ഒരു വോൾടേജ് ടെർമിനൽ a b പ്രയോഗിക്കുക എന്നിട്ട് കറണ്ട് നിർണ്ണയിക്കുക അപ്പോൾ ആ കേസിൽ എന്തു സംഭവിക്കും ഇവിടെ സ്വതന്ത്ര ശ്രോതസ്സുകൾ പൂജ്യത്തിന് തുല്യമായവ നിലവിലുണ്ട് ആശ്രിത സ്രോതസ്സുകളും ലഭ്യമാണ് ഈ കേസിൽ ഒരു വോൾടേജ് ടെർമിനൽ എ യ്കും ബി യ്കും കുറുകെ പ്രയോഗിക്കുക എന്നിട്ട് കറണ്ട് യുടെ മൂല്യം അളക്കുക ആ കേസിൽ ഇതിൽ എന്ത് സംഭവിക്കും ടെർമിനൽ എബി യുടെ അകത്ത് ഏത് കറണ്ട് ആയിക്കോട്ടെ പ്രവഹിക്കുന്നത് വോൾട്ടേജ് ഹരിക്കുന്നത് എങ്കിൽ v സീറോ ഹരണം I സീറോ നിങ്ങൾക്ക് അതായത് തെവെനിൻ തുല്യമായ റെസിറ്റന്സ് നൽകും അതിനാൽ ഈ രണ്ടു ടെർമിനലിന് കുറുകെ വോൾടേജ് സ്രോതസിനു പകരം കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കാം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം കറണ്ടിന് പകരം നിങ്ങൾ കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അളക്കുന്നത് ടെർമിനൽ എ ബി യ്ക്ക് കുറുകെ ഉള്ള കറണ്ട് വേണം അളക്കുവാൻ ആ കേസിൽ എന്ത് സംഭവിക്കും എന്തായിരിക്കും എന്ന് വെച്ചാൽ ടെർമിനൽ എ ബി യ്ക്ക് കുറുകെ ഉള്ള വോൾടേജ് കറണ്ട് സ്രോതസ്സ് നൽകുന്ന കറണ്ട് വെച്ച് ഹരിച്ചത് അപ്പോൾ ആ കേസിൽ വേറൊന്നുമല്ല പക്ഷെ ആയിരിക്കും ഈ രണ്ട് കേസിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാർഗ്ഗം ഉപയോഗിക്കാം ഈ രണ്ട് കേസിലും നമുക്ക് ന് ഒരേ മൂല്യം തന്നെ കിട്ടും അതിനാൽ നിങ്ങൾക്ക് അന്തിമമായി അതേ പരിണിതഫലം തന്നെ കിട്ടും കൂടെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു പിടിച്ച നെഗറ്റീവ് ആയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് സർക്യൂട്ട് വിട്ടു കൊടുക്കുന്നത് പവർ ആണെന്നാണ് നെഗറ്റീവ് ആയാൽ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ വേവലാതിപ്പെടേണ്ടത് ഇല്ല എന്നാൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും ഇത് സർക്യൂട്ടിൽ ആശ്രിത ശ്രോതസ്സുകൾ ഉള്ളപ്പോൾ ആകാം ഉണ്ടാവുക ഈ സിദ്ധാന്തം സർക്യൂട്ട് വിശകലനത്തിൽ വളരെ പ്രധാനം ഉള്ളതാണ് ഇത് സർക്യൂട്ടിനെ ലളിതമാക്കാൻ സഹായിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ പുറത്ത് എത്രത്തോളം വലിയ നെറ്റ്വർക്ക് ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ലളിതമായി നിങ്ങളുടെ പഠനത്തിന്റെ പുറത്തുള്ള നെറ്റ്വർക്കിനെ തെവെനിൻ തുല്യത വച്ചിട്ട് തുല്യമാകും ഉം ഉം വെച്ച് മാറ്റി വെയ്ക്കും എന്നിട്ട് ആ തുല്യത സർക്യൂട്ട് വെച്ച് നിങ്ങൾക്കിഷ്ടമുള്ള സർക്യൂട്ട്നെ വിശകലനം ചെയ്യും അതിനാൽ ആണ് ഈ തെവെനിൻ തുല്യത പുനഃസ്ഥാപന സാങ്കേതികത്വം സർക്യൂട്ട് രൂപകല്പനയിൽ ശക്തിയുള്ള ആയുധം ആക്കുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് പോലെ ചഞ്ചലമായ ലോഡ് ഉള്ള ലീനിയർ സർക്യൂട്ടിനെ ലോഡ് ഉൾപ്പെടുത്താത്ത തെവെനിൻ തുല്യത ആയിട്ട് മാറ്റി വെക്കാം ഇനി ഈ തുല്യത നെറ്റ്വർക്ക് ഒരു പുറമേയുള്ള സർക്യൂട്ട്നെ പോലെ ആകും പെരുമാറുക കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് തെവെനിൻ തുല്യമായിട്ട് ഉള്ള പുറമേയുള്ള സർക്യൂട്ട്നെ ആണ് ഇത് vi വിശേഷലക്ഷണം തുല്യമാക്കി വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ നമുക്ക് വിവിധ ലോഡ് വോൾറ്റേജ്ജിന്റെ യും കറണ്ടിന്റെയും മൂല്യങ്ങൾ നിർണ്ണയിക്കാം നമുക്ക് വളരെ ലളിതമായ ഒരു സർക്യൂട്ട് എടുക്കാം ലോഡ് റെസിസ്റ്റൻസ് ലൂടെ ഒഴുകുന്ന കറൻറ്ന്റെ മൂല്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഇനി നിങ്ങൾ എന്തു ചെയ്യും ലോഡിലേക്ക് കൃത്യമായ പുറമേയുള്ളത് അതിന്റെ തെവെനിൻ തുല്യത അതായത് അല്ലെങ്കിൽ ആയിട്ട് മാറിയിട്ടുണ്ടാകും ആ കേസിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ആയിരിക്കും നമ്മുടെ ലോഡ് കൂടാതെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും അത് തെവെനിൻ തുല്യത റെസിസ്റ്റൻസ് ആണ് എന്നിട്ട് ഇത് രണ്ടും വോൾടേജ് സ്രോതസ്സ് വഴി ഘടിപ്പിക്കും അത് വേറൊന്നുമല്ല തെവെനിൻ വോൾടേജ് ആണ് ഇത് യഥാർത്ഥ സർക്യൂട്ട്ന്റെ തുല്യമായ സർക്യൂട്ടാണ് അവിടെ ലീനിയർ സർക്യൂട്ട് നമുക്ക് അറിയില്ല അത് നമ്മൾ ലളിതമായി തെവെനിൻ തുല്യതയും ആയിട്ട് മാറ്റിവയ്ക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെ കറണ്ടിന്റെ മൂല്യം നിർണയിക്കും ന്റെ മൂല്യം ലളിതമായി ആയിരിക്കും അപ്പോൾ അതാണ് കിർച്ചോഫ് വോൾടേജ് ലോ Kirchhoff's voltage law ഇതുപയോഗിച്ച് ന്റെ മൂല്യം നിർണയിക്കാം ഇനി ലോഡിന് കുറുകെ ഉള്ള വോൾടേജ് ആണ് ന്റെയും ന്റെയും മൂല്യം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ലോഡിന് കുറുകെ ഉള്ള പരിവർത്തനവസ്തുക്കൾ കണ്ടുപിടിക്കാം അതായത് വോൾടേജും കറണ്ടും ഇനി നിങ്ങൾക്ക് കറണ്ടും ലോഡ് വോൾടേജ്ജും നിരവധി കേസ് അല്ലെങ്കിൽ നിരവധി ലോഡുകളിൽ കൂടി കണ്ടുപിടിക്കേണ്ടത് ഉണ്ടെങ്കിൽ ഈ സർക്യൂട്ടിൽ നിങ്ങൾ ഒന്നും മാറ്റം വരുത്തേണ്ടത് ഇല്ല അതായത് യിലും യിലും നിങ്ങൾ വെറുതെ ടെർമിനൽ a യ്ക്കും b യ്ക്കും കുറുകെ ഉള്ള ലോഡ് മാറ്റിക്കൊണ്ടേ ഇരുന്നാൽ മതി അതായത് ലോഡിന്റെ റസിസ്റ്റൻസ്സിനെ അടിസ്ഥാനമാക്കി ലോഡ് കറണ്ട് മാറിക്കൊണ്ടേയിരിക്കും സർക്യൂട്ട് പുനഃക്രമീകരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പൂർത്തിയാക്കേണ്ട കാര്യമില്ല വളരെ ലളിതമായി ലോഡ് മാറ്റുക എന്നിട്ട് പുതുക്കിയ മൂല്യം കണ്ടുപിടിക്കുക ഈ രീതിയിൽ രണ്ട് ടെർമിനലിലേക്ക് ഘടിപ്പിച്ച അനേക കേസ്സ് ഉണ്ടെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി ഈ രീതി നമുക്ക് ഒരു ഉദാഹരണത്തോടെ മനസ്സിലാക്കാം ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് നോക്കുക ടെർമിനൽ a b യുടെ ഇടതു നമുക്ക് തെവെനിൻ തുല്യതാ കണ്ടു പിടിക്കാം അപ്പോൾ ഇതാണ് ടെർമിനൽ a b 6 ഓം അല്ലെങ്കിൽ 36 ഓം ആകുമ്പോഴുള്ള ലോഡിലൂടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം ഇതാണ് മാറ്റികൊണ്ടിരിക്കുന്ന പരിവർത്തന ലോഡ് വിവിധ ലോഡ് അവസ്ഥയിൽ ലോഡിലൂടെയുള്ള കറണ്ടിന്റെ മൂല്യം നമ്മൾ കണ്ടുപിടിക്കണം ഈ കേസിൽ നമ്മൾ ലോഡിന്റെ അവസ്ഥ പരിഗണിക്കുന്നു അതായത് 6 ഓം ആകുമ്പോഴും 36 ഓം ആകുമ്പോഴും 32 വോൾട്ട് സ്രോതസ്സ് ഓഫ് ആക്കിയിട്ടു നമ്മൾ തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇനി വോൾട്ടേജ് സ്രോതസ്സ് മാറ്റി വെച്ചാൽ അത് ഷോർട്ട് സർക്യൂട്ട് ആകും പിന്നെ നമുക്ക് വേറെ ഒരു സ്രോതസ്സ് അതായത് കറൻറ് സ്രോതസ്സ് അതായത് രണ്ട് ആമ്പിയർ കറണ്ട് സ്രോതസ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ആകുന്നു പുതുക്കിയ സർക്യൂട്ട് ഈ കേസിൽ എങ്ങനെ ആയിരിക്കും നമുക്ക് 12 ഓം റെസിസ്റ്റൻസ് 4 ഓം റെസിസ്റ്റൻസിനോട് പാരലൽ ആയി ഉണ്ട് ഇനി ഈ പാരലൽ സന്ധി ചേർന്ന് സീരിസ് ആയിട്ട് 1 ഓം റെസിസ്റ്റൻസ് ഈ രണ്ട് ടെർമിനലുകൾ അതായത് എ യും ബി യും ഇതിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് 4 ഓം ന്റെ മൂല്യം ആയി കിട്ടും ഈ രണ്ടു റെസിസ്റ്റനസിന്റെയും പാരലൽ സന്ധി ചേരൽ നമുക്കു 3 ഓം കൂടാതെ 1 ഓം സീരിസിൽ കിട്ടും അവസാനം 4 ഓം ആയിരിക്കും ന്റെ മൂല്യം ഇനി അടുത്തത് തെവെനിൻ വോൾടേജ് കണ്ടുപിടിക്കുക എന്നാണ് തെവെനിൻ വോൾടേജ് കണ്ടുപിടിക്കുവാൻ നമുക്ക് സർക്യൂട്ട് പരിഗണിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചചെയ്തത് ഒന്ന് ഓർമിച്ചെടുക്കണം പ്രത്യേകിച്ച് മെഷ് വിശകലനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കു ഇവിടെ നമുക്ക് രണ്ടു മെഷ് ഉണ്ടാക്കിയെടുക്കാം മെഷ് കറണ്ട് ഉം ഉം ഈ രണ്ട് മെഷിലും പ്രയോഗിക്കുക ടെർമിനൽ a b ക്കു കുറുകെ ഉള്ള വോൾടേജ്ജും കണ്ടുപിടിക്കണം ഇനി ഈ സർക്യൂട്ടിൽ നിങ്ങൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ഓം റെസിസ്റ്ററിലൂടെ ഒരു കറണ്ടും പ്രവഹിക്കുന്നില്ല അപ്പോൾ കറണ്ട് പൂജ്യം ആയിരിക്കും ഇനി കറണ്ട് പൂജ്യം ആയിരികുമ്പോൾ ഇതിനു കുറുകെ നേരിട്ട് തന്നെ പ്രയോഗിക്കാം അതായത് അത് തന്നെ ഇതിനു കുറുകെ പ്രയോഗിക്കാം കാരണം എല്ലാം പാരലൽ ആയത് കൊണ്ട് വേറൊന്നും ആകില്ല പക്ഷെ ഈ നോഡിൽ വരുന്ന വോൾടേജ് ന്റെ മൂല്യം ഈ നോഡിൽ വരുന്നത് ആയിരിക്കും ഇനി മെഷ് വിശകലനം ഈ രണ്ട് ലൂപ്പിലും ചെയ്യാം A ഇപ്പോൾ നമുക്ക് രണ്ടു സമവാക്യങ്ങളും കിട്ടി നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ച കഴിഞ്ഞു ഇനി വിന്റെ മൂല്യം ഈ സമവാക്യത്തിൽ വെച്ചാൽ മതി 0 5 ആംപിയർ കറണ്ട് ആയി കിട്ടും ഇനി ഉം ഉം കിട്ടിയതിനാൽ ഇത്ര ആയിരിക്കും V മെഷ് വിശകലനത്തിനു പകരം നമുക്ക് നോഡൽ വിശകലനവും പ്രയോഗിക്കാം ഈ നോഡിൽ നോഡൽ വിശകലനം ചെയ്താൽ കാരണം ഈ നോഡാണ് വോൾട്ടേജ് നമ്മൾ കാണുന്ന നോഡ് ഇവിടെ നോഡൽ വിശകലനം നിങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം കിർച്ചോഫ് കറണ്ട് ലോ KIrchhoff's current law ഉപയോഗിക്കണം എന്നാണ് നോഡിൽ കൂടെ പ്രവഹിക്കുന്ന പല കറണ്ടുകളും നമ്മൾ കാണും അതിനെ പൂജ്യത്തിനോട് സമം ആക്കുക എന്തുകൊണ്ട് എന്നാൽ ആ നോഡിലെ കറണ്ടിന്റെ തുക 0 ആയിരിക്കും എന്തായിരിക്കും ഇടത് വശത്തു നിന്ന് അകത്തേക്ക് വരുന്ന കറണ്ട് ആയിരിക്കും അപ്പോൾ ആദ്യത്തെ പ്രമേയാഖ്യ നമുക്ക് കിട്ടി അടുത്തത് 2A കറണ്ടാണ് ഈ ദിശയിൽ പ്രവഹിക്കുന്നത് അതിനാൽ വളരെ ലളിതമായി നമുക്ക് 2 ആംപിയർ കറണ്ടിന്റെ മൂല്യം ഇടാം മൂന്ന് ആണ് ഈ ദിശയിൽ പ്രവഹിക്കുന്ന കറണ്ട് അതിനാൽ ഈ ദിശയിൽ കൂടി പ്രവഹിക്കുന്ന കറണ്ട് ഈ രണ്ടു കറണ്ടിന്റെയും മൊത്തമാണ് അവസാനം ഇത് നോട് സമം ആയിരിക്കും അതായത് 12 കാരണം ഇവിടെ ഉള്ള വോൾടേജ് ആണ് റഫറൻസ് നോഡിന്റെയും ഈ ചോദ്യത്തിലെ നോഡിന്റെയും ഇടയിൽ ഘടിപ്പിച്ചിട്ടുള്ള റെസിസ്റ്റൻസ് 12 ഓം ആയിരിക്കും ഈ സമവാക്യം നമുക്ക് വളരെ ലളിതമായി തന്നെ നോഡൽ വിശകലനം വഴി കിട്ടും ഈ പദങ്ങൾ ക്രമീകരിച്ചു ലളിതമാക്കുക നമുക്ക് തെവനിയൻ വോൾട്ടേജ് മൂല്യം 30V ആയി പിന്നെയും കിട്ടും അങ്ങിനെ ഒന്നെങ്കിൽ മെഷ് വിശകലനം അല്ലെങ്കിൽ നോഡൽ വിശകലനം രണ്ടു വഴിയിലും പ്രയോഗിക്കുക നമുക്ക് തെവനിയൻ വോൾട്ടേജ് ഒരുപോലെ കിട്ടും ഇനി ഈ ചിത്രത്തിന് തുല്യമായ സർക്യൂട്ട് നമ്മൾ ചർച്ച ചെയ്തത് 30V ആയും 4 ഓം കൂടാതെ ടെർമിനൽ a b ക്ക് കുറുകെ നമ്മൾ മാറ്റം വരുന്ന റെസിസ്റ്റൻസ് എവിടെ ആണ് കറണ്ടിന്റെ മൂല്യം ലോഡ് കറണ്ട് 6 ഓം ഉം 36 ഓം ഉം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ന്റെ മൂല്യം ഇടുക ന്റെ മൂല്യം 6 ഓമിന് തുല്യമാകുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ കിർച്ചോഫ് വോൾടേജ് ലോ പ്രയോഗിച്ചാൽ കറണ്ട് ന്റെ മൂല്യം 3A ആയി കിട്ടും ഇത്പോലെതന്നെ 16 ഓം ആണെങ്കിൽ നമുക്ക് കറണ്ട് 1 5A ആയി കിട്ടും നെ 36 ഓം ആയിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് കിട്ടും പക്ഷെ 30 ഹരിച്ചാൽ 40 വെച്ചിട്ട് നമുക്കു 0 75 ആംപിയർ കിട്ടും ഈ സർക്യൂട്ടിന്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിന്റെ ഇടതു ഭാഗം അങ്ങനെ തന്നെ വെക്കും അതായത് ടെർമിനൽ a b യുടെ ഇടതു എന്നിട്ട് പിന്നെ ലോഡ് കറണ്ടിന്റെ മൂല്യം വഹിച്ചുകൊണ്ട് ഇരിക്കണം പല ലോഡ് റെസിസ്റ്റന്സ് തരുമ്പോഴും ലോഡ് കറണ്ടിന്റെ മൂല്യം നിർണയിക്കുക ഇങ്ങനെ പല ലോഡ് വ്യവസ്ഥിതിയിലും നമുക്ക് ലോഡ് കറണ്ടിന്റെ മൂല്യം കണ്ടുപിടിക്കാം നമ്മൾ തെവെനിൻ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള തുടക്കത്തിലെ ചർച്ച വെച്ച് ഇവിടെ നിർത്തുകയാണ് നമ്മൾ സ്വതന്ത്ര വോൾട്ടേജ് സ്വതന്ത്ര കറണ്ട് സ്രോതസ്സുകളെ ആണ് പരിഗണിച്ചിരിക്കുന്നത് അടുത്ത സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കേസിൽ ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് കറണ്ട് സ്രോതസ്സ് സർക്യൂട്ടിൽ ഉണ്ടാകും നമ്മൾ ആ കേസിൽ സർക്യൂട്ട് എങ്ങനെ വിശകലനം ചെയ്യും